നമസ്കാരം ഇന്ന് നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾ അനാലിസിസ്സും അതുപോലെതന്നെ ഒരു സിസ്റ്റത്തിൻറെ ഗ്രാഫിക്കൽ മോഡലിനെ പറ്റിയും ചർച്ച ചെയ്യാം നിയന്ത്രണ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ ഗ്രാഫിക്കൽ മോഡലുകൾ മനസിലാക്കാൻ ശ്രമിക്കാം അടിസ്ഥാനപരമായി ഗ്രാഫിക്കൽ മോഡൽ സിസ്റ്റത്തിൻറെ ചിത്രപരമായ പ്രതിപാദനം മാത്രമാണ് ലീനിയർ സിസ്റ്റം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഉദാഹരണത്തിന് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഒരു ഇൻപുട്ടും ഔറ്റ്പുട്ടും ഉള്ള സിസ്റ്റത്തിൻറെ ഗ്രാഫിക്കൽ പ്രതിപാദനം ആണ് അതിനിടയിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൻറെ ഗണിതശാസ്ത്ര മാതൃക ഉണ്ട് സാധാരണയായി രണ്ട് വ്യത്യസ്ത തരം ഗ്രാഫിക്കൽ മോഡലുകൾ ഉപയോഗിക്കുന്നു ഒന്ന് ബ്ലോക്ക് ഡയഗ്രം മറ്റൊന്ന് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ബ്ലോക്ക് ഡയഗ്രം എന്താണെന്ന് ആദ്യം മനസിലാക്കാം മൊത്തത്തിലുള്ള ഡയഗ്രം സിസ്റ്റങ്ങളുടെ ഗണിതശാസ്ത്ര മാതൃകയെ അനുസരിക്കുന്ന തരത്തിൽ ചില അടിസ്ഥാന ഗണിത പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളുടെ പരസ്പര ബന്ധമാണ് ബ്ലോക്ക് ഡയഗ്രം ഈ പ്രത്യേക ബ്ലോക്ക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഒരു ഇൻപുട്ടായും ഒരു ഔട്ട്പുട്ട് ആയും കൊടുത്തിരിക്കുന്നു മാത്രമല്ല അതിനുള്ളിൽ ഒരു കൂട്ടം ബ്ലോക്കുകളുണ്ട് അവ ഗണിതശാസ്ത്രപരമായി പ്രതിനിധീകരിക്കുമ്പോൾ പൂർണ്ണമായ സിസ്റ്റം മോഡൽ നൽകും അതിനാൽ ബ്ലോക്ക് ഡയഗ്രാമിൽ വിവിധ അളവുകളുടെ ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിക്കുന്നു അതായത് അവ സിഗ്നലുകളായാലും പ്രോസസ്സിംഗ് ബ്ലോക്കുകളായാലും ബ്ലോക്ക് ഡയഗ്രാമിലെ സിസ്റ്റം മോഡലിനെ പ്രതിനിധീകരിക്കുന്നതിന് ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിക്കുന്നു ബ്ലോക്ക് ഡയഗ്രാമിൽ ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ സമേഷൻ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻറെ ഗേയിൻ അല്ലെങ്കിൽ ഗുണനമോ ആകാം ഉദാഹരണത്തിന് ഈ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇത് സമേഷൻ ഉള്ള ചിഹ്നമാണ് അതായത് അത് അവിടെ വിവിധ തരം സിഗ്നലുകൾ കൂട്ടി ചേർക്കപ്പെടുന്നു അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സിഗ്നലായി ഉണ്ട് ഒരു നെഗറ്റീവ് ആണ് ആയി കാണുന്നത് ഔട്ട്പുട്ട് ആണ് അതായത് തുടർന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻറെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ട് അതിനാൽ ഈ ബ്ലോക്ക് ഡയഗ്രാമിൽ നിങ്ങൾ വ്യത്യസ്ത ഘടകങ്ങൾ കാണും മാത്രമല്ല ബ്ലോക്ക് ഡയഗ്രാമിൽ കാണുന്ന വ്യത്യസ്ത ഘടകങ്ങൾ ഓരോന്നായി നമ്മൾ ചർച്ച ചെയ്യും ആദ്യം നമുക്ക് സമ്മർ എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം സമ്മർ എന്നാൽ വേരിയബിളുകളുടെ കൂട്ടിച്ചേർക്കലും കുറയ്ക്കലും അതിനാൽ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന വേരിയബിളുകൾ ചേർക്കാനോ കുറയ്ക്കാനോ ഒരു സമ്മർ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിനെ സമ്മിംഗ് ജംഗ്ഷൻ എന്നും വിളിക്കാം അതിനാൽ നിങ്ങൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം ഇൻപുട്ടുകൾ വരുന്നിടത്ത് ഒരു സംഗ്രഹ ബ്ലോക്ക് കാണും തുടർന്ന് നിങ്ങൾക്ക് ഒരു ഒറ്റയായ ഔട്ട്പുട്ട് ഉണ്ട് അത് ആണ് സമ്മർനെ ഒരു സർക്കിൾ പ്രതിനിധീകരിക്കുന്നു ഈ ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്നത് ഒരു സർക്കിളും അതിലേക്ക് നയിക്കുന്ന ആരോകളും ആണ് അവ സമ്മറിന്റെ ഇൻപുട്ടും സമ്മറിന്റെ ഔട്ട്പുട്ടും അല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ ഇൻപുട്ടുകൾ ആണെങ്കിൽ ഓരോ ആരോകളിലും ഈ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചിഹ്നം ഇട്ടിരിക്കുന്നത് സിഗ്നൽ കൂട്ടുവാൻ ആണോ അതോ കുറയ്ക്കാൻ ആണോ എന്നതിനെ സൂചിപ്പിക്കുന്നു ഈ ചിത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഇൻപുട്ടുകൾ കാണാൻ സാധിക്കും ഒന്ന് കൂട്ടുവാൻ ആയും ഒന്ന് കുറയ്ക്കാൻ ആയും അതിനാൽ ഔട്ട്പുട്ട് വേരിയബിൾ ആരോ അതായത് സർക്കിൾ വിടുന്ന ആരോ സൂചിപ്പിക്കുന്നത് ഇൻകമിംഗ് വേരിയബിളിൻറെ ആകെ തുകയാണ് അതിനാൽ സമ്മർ വേരിയബിളുകൾ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഗെയിൻ ബ്ലോക്കിനെക്കുറിച്ച് സംസാരിക്കാം ഒരൊറ്റ വേരിയബിളിനെ ഒരു സ്ഥിരാങ്കത്തെ വെച്ച് ഗുണിക്കുന്നതിനെ ഗെയിൻ ബ്ലോക്ക് പ്രതിനിധീകരിക്കുന്നു ഗെയിൻറെ മൂല്യത്തിന് ഒരു നിയന്ത്രണവുമില്ല അതിനാൽ ഇത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ ഇത് മറ്റ് സ്ഥിരതുകളുടെയും അല്ലെങ്കിൽ സിസ്റ്റം പാരാമീറ്ററുകളുടെയും ബീജഗണിത പ്രവർത്തനമാകാം അതിനാൽ നിങ്ങൾ ഈ ബ്ലോക്ക് കാണുകയാണെങ്കിൽ A ആണ് ഗെയിൻ ബ്ലോക്ക് അതിനാൽ ഈ കേസിൽ നിങ്ങൾ എന്ന മൂല്യം എടുക്കുകയാണെങ്കിൽ അതേസമയം ഒരു ബീജഗണിത പ്രവർത്തനമായി നിങ്ങൾക്ക് ബ്ലോക്കിനെ പ്രതിനിധീകരിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ ഈ ഗെയിൻ ആയി പ്രതിനിധീകരിച്ചു എന്നിവ രണ്ട് വ്യത്യസ്ത വേരിയബിളുകളാണ് അതിനാൽ എന്നീ വേരിയബിളുകൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലോക്കിൽ നിന്ന് ലഭിക്കുന്ന മൊത്തം ഗെയിൻ ലഭിക്കും അതിനാൽ അതിനാൽ സിഗ്നൽ ഇൻപുട്ട് വർദ്ധിപ്പിക്കുന്നതിന് ഗെയിൻ ബ്ലോക്ക് ഉപയോഗിക്കുന്നു ഇനി നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനെക്കുറിച്ച് സംസാരിക്കാം ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ നമ്മൾ ഇതിനകം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് ആശയം ചർച്ച ചെയ്തിരുന്നു അതിനാൽ ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ വീണ്ടും ഓർക്കാം പ്രാരംഭ സംഭരണ ഊർജ്ജമില്ലാത്ത ഒരു നിശ്ചിത ലീനിയർ സിസ്റ്റത്തിന് ഔട്ട്പുട്ട്ടായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇവിടെ സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷനും പ്രതിനിധീകരിക്കുന്നത് ലാപ്ലേസ് ഡൊമൈനിൽ ഉള്ള ട്രാൻസ്ഫോം ഇൻപുട്ട്മാണ് ഇപ്പോൾ വലിയ സിസ്റ്റത്തിൻറെ ഭാഗങ്ങളുമായി ഇടപെടുമ്പോൾ നമുക്ക് സബ്സിസ്റ്റം ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിക്കാം അതിനാൽ അടിസ്ഥാനപരമായി ഒരു വലിയ സിസ്റ്റത്തിൻറെ ഭാഗമായ ലാപ്ലേസ് ട്രാൻസ്ഫോർം സബ്സിസ്റ്റമാണ് ആ സബ്സിസ്റ്റത്തിൻറെ ഇൻപുട്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ട് ആണ് ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ഇതിനെ പ്രതിനിധീകരിക്കും നിങ്ങൾ ഈ സമവാക്യത്തെ ബ്ലോക്ക് ഡയഗ്രാമിൻറെ രൂപത്തിൽ പ്രതിനിധീകരിക്കും അതിൽ ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടായും ട്രാൻസ്ഫർ ഫംഗ്ഷനും ഔട്ട്പുട്ടായും അതിനാൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയി പ്രതിനിധീകരിക്കാം അതിനാൽ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിനുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഇത് ഒരു സാധാരണ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിനായുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനായിരിക്കും കൂടാതെ ബ്ലോക്ക് ഡയഗ്രാമിൻറെ രൂപത്തിൽ ഇത് പ്രതിനിധീകരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ബ്ലോക്കിന് ഇൻപുട്ടായി നിങ്ങൾ നൽകും ബ്ലോക്കിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അത് ഉം ഔട്ട്പുട്ടും ആയിരിക്കും ഇനി നമുക്ക് ഇന്റഗ്രേറ്റർ ബ്ലോക്കിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ ബന്ധപ്പെട്ട ഇൻറ്റഗ്രേഷനെ പറ്റി ചർച്ച ചെയ്തതായി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ വിശകലനത്തിൽ നമുക്ക് ആ ചർച്ച ഉപയോഗിക്കാം ഇവിടെ ഇന്റഗ്രേറ്റർ ബ്ലോക്കിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ x നെ ഒരു ഇൻപുട്ടായും y ഔട്ട്പുട്ടായും പരിഗണിക്കുകയാണെങ്കിൽ അതിനാൽ ഇൻപുട്ട് ഫംഗ്ഷൻ x ൻറെ ഇൻറ്റഗ്രേഷൻ കണ്ടെത്താനുള്ള ഡമ്മി വേരിയബിൾ ആണ് ഇപ്പോൾ y പൂജ്യത്തിന് തുല്യമാണെന്ന് കരുതുകഅതായത് തുടക്കത്തിൽ ഈ സിസ്റ്റത്തിന് ഒരു മൂല്യവുമില്ല അതിനാൽ നിങ്ങൾക്ക് ലളിതമായി എഴുതാം ഇപ്പോൾ നിങ്ങൾ ലാപ്ലേസിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ന് കിട്ടും മുമ്പത്തെ ക്ലാസ്സുകളിൽ ഇൻറ്റഗ്രൽ പദത്തിനായുള്ള ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്ന് എഴുതാൻ കഴിയും അതിനർത്ഥം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് അതിനാൽ ഇന്റഗ്രേറ്ററിൻറെ കാര്യത്തിൽ ഇപ്പോൾ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ബ്ലോക്കിലേക്ക് ഒരു ഇൻപുട്ടായി നിങ്ങൾക്ക് എഴുതാം ബ്ലോക്കിനുള്ളിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്ററുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്റഗ്രേറ്ററിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയ പറയാൻ കഴിയും സീരീസ് കോമ്പിനേഷനിലായിരിക്കാം ബ്ലോക്കുകൾ ഇപ്പോൾ ഇപ്പോൾ ബ്ലോക്കുകൾ സീരീസ് കോമ്പിനേഷനിലാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം ഒരു ബ്ലോക്കിൻറെ ഔട്ട്പുട്ട് ഒരു ഇൻപുട്ടായി മറ്റ് ബ്ലോക്കിലേക്ക് പോകും തുടർന്ന് ഈ രണ്ട് ബ്ലോക്കുകളും ശ്രേണിയിലാണെന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉള്ള ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടാണ് എന്ന് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും അതിനാൽ ഈ ബ്ലോക്കിൻറെ ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ട് ആണ് ഈ ഔട്ട്പുട്ട് മറ്റൊരു ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടായി നേരിട്ട് പോകുന്നു അത് ആണ് ഒടുവിൽ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഉം

അതിനാൽ നിങ്ങൾ ഈ 2 സമവാക്യങ്ങൾ ഉപയോഗിച്ച് ലളിതം ആക്കിയാൽ 2 ബ്ലോക്കുകൾ ശ്രേണിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ രണ്ടും സംയോജിപ്പിച്ച് ഒരൊറ്റ ബ്ലോക്കിലൂടെ പ്രതിനിധീകരിക്കാം തുടർന്ന് ബ്ലോക്ക് ആയിരിക്കും അതിനാൽ സീരീസ് കോമ്പിനേഷൻറെ കാര്യത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനുകൾ ഗുണിച്ച് സിസ്റ്റത്തിൻറെ അന്തിമ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കും ഇപ്പോൾ ബ്ലോക്കുകൾ സമാന്തര സംയോജനത്തിലാണെങ്കിൽ രണ്ട് സിസ്റ്റങ്ങൾക്ക് പൊതുവായ ഇൻപുട്ട് ഉള്ളപ്പോൾ സമാന്തരമായിരിക്കുമെന്നും അവയുടെ ഔട്ട്പുട്ട്കൾ ഒരു സമ്മിംഗ് ജംഗ്ഷൻ സംയോജിപ്പിക്കുമെന്നും അർത്ഥമാക്കുന്നു അതിനാൽ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഉം ഉം രണ്ട് സബ്സിസ്റ്റങ്ങളാണ് ഈ രണ്ട് സബ്സിസ്റ്റങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനുകൾ എന്നിവയാണ് ഈ രണ്ട് സിസ്റ്റങ്ങൾക്കും ഇൻപുട്ട് നൽകുന്നു അതിനാൽ നിങ്ങൾ ഔട്ട്പുട്ടിലേക്ക് ലഭിക്കും അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ സംഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ആകും ഇപ്പോൾ ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻറെ ബ്ലോക്ക് ഡയഗ്രാമിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉള്ള സിസ്റ്റത്തിൻറെ ബ്ലോക്ക് ഡയഗ്രമാണ് ഇൻപുട്ടും ഫീഡ്ബാക്ക് ലൂപ്പിൻറെ ഔട്ട്പുട്ടും ആണ് അതിനാൽ നിങ്ങൾക്ക് ആയി കാണാനാകും ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലേക്ക് പോകുന്നു നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയി ലഭിക്കും ഈ സാഹചര്യത്തിൽ സിസ്റ്റത്തിന് ഒരു ഫീഡ്ബാക്ക് ലൂപ്പും ഉണ്ട് ഈ പ്രത്യേക ബ്ലോക്ക് ഡയഗ്രാമിൽ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണും അതിനാൽ സിസ്റ്റത്തിൻറെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനുമുള്ള ലാപ്ലേസ് പരിവർത്തനം ഉം ഉം ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നെ ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ നെ ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു ആണെങ്കിൽ അത് ഫീഡ്ബാക്ക് ലൂപ്പിനായുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാകും അതിനാൽ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ഫീഡ്ബാക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു നിങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന മറ്റൊരു പദം ലഭിക്കും ഫീഡ്ബാക്ക് സിസ്റ്റത്തെ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ഫംഗ്ഷനുകളാണ് ഇവ മൂന്നും ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻറെ ഫോർവേർഡ് ഫീഡ്ബാക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻറെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൂർണ്ണ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിർണ്ണയിക്കാൻ കഴിയും അതിനാൽ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിർണ്ണയിക്കാൻ നമുക്ക് കഴിയും മൊത്തം ഔട്ട്പുട്ട് ആണെന്ന് പറയുന്നതുപോലെ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്ന് എഴുതാം അതിനാൽ നമുക്ക് ഈ മൂന്ന് സമവാക്യങ്ങൾ ഉണ്ട് ഇപ്പോൾ ഈ മൂന്ന് സമവാക്യങ്ങളുടെ സഹായത്തോടെ ഞങ്ങൾ V Z എന്നിവ ഇല്ലാതാക്കും അതിനാൽ അവ ഇല്ലാതാക്കുമ്പോൾ മൂല്യം ലഭിക്കും നമുക്കിത് പുനർ ക്രമീകരിക്കാൻ കഴിയും അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് അതിനാൽ നിങ്ങൾ പൂർണ്ണമായ സിസ്റ്റം എടുത്ത് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുകയാണെങ്കിൽ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയി മാറും ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉള്ള ലളിതമായ ബ്ലോക്കായി നിങ്ങൾക്ക് ഈ സിസ്റ്റത്തെ പ്രതിനിധീകരിക്കാൻ കഴിയും അത് ഉം ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് ഇപ്പോൾ ഇവിടെ ഈ സാഹചര്യത്തിൽ മുമ്പത്തെ ചിത്രത്തിൽ സമ്മിംഗ് ജംഗ്ഷന് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നൽ ഉണ്ടെന്ന് നമുക്ക്കാണാൻ സാധിക്കും അതിനാൽ ഇവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നലായി ചേർത്തു പൂർണ്ണമായ ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻറെ ലാപ്ലേസ് പരിവർത്തനം കണ്ടെത്താൻ ഇപ്പോൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന സിസ്റ്റത്തിൻറെ ഗ്രാഫിക്കൽ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫുകളും സിസ്റ്റത്തിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ ഉള്ളവയാണ് ബ്ലോക്കുകൾ സിഗ്നലുകൾ സമ്മിംഗ് ജംഗ്ഷനുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ലീനിയർ സിസ്റ്റത്തിനായി നമ്മൾ ചർച്ച ചെയ്ത ബ്ലോക്ക് ഡയഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായി സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻറെ കാര്യത്തിൽ ലീനിയർ സിസ്റ്റത്തിനായി സിസ്റ്റത്തെ പ്രതിനിധീകരിക്കുന്ന ശാഖകളും സിഗ്നലുകളെ പ്രതിനിധീകരിക്കുന്ന നോഡുകളും മാത്രമേ കാണൂ അതിനാൽ നിങ്ങൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ബ്രാഞ്ച് കണ്ടാൽ അത് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് നോഡിനെ ഒരു സർക്കിൾ പ്രതിനിധീകരിക്കുന്നു അവിടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആണ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻറെ ഇന്റർമീഡിയറ്റ് സിഗ്നൽ ആണ് ഇപ്പോൾ ലൈനിനോട് ചേർന്ന് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുന്നു അതിനാൽ ഇത് സിസ്റ്റത്തിൻറെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് സിഗ്നലിൻറെ കാര്യത്തിൽ ആ പ്രത്യേക നോഡിന് സമീപം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുന്നു ഇപ്പോൾ നിങ്ങൾ ചുവടെ കാണുന്ന ചിത്രം സിസ്റ്റങ്ങളുടെയും സിഗ്നലുകളുടെയും പരസ്പര ബന്ധത്തെ പ്രതിനിധീകരിക്കും ഇപ്പോൾ ഇവിടെയുള്ള ഓരോ സിഗ്നലും അതിലേക്ക് ഒഴുകുന്ന സിഗ്നലുകളുടെ ആകെത്തുകയാണ് അതിനാൽ നിങ്ങൾ ഈ ചിത്രം നോക്കുകയും ൻറെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്താൽ

ഇപ്പോൾ സിഗ്നലുകളുടെ മൂല്യം അതിനാൽ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് പ്രോപ്പർട്ടി സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൂടുതൽ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കും ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുന്നതിന് മുമ്പ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉപയോഗിച്ച് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന കുറച്ച് പദങ്ങൾ മനസിലാക്കാം ഒന്നാമത്തേത് ലൂപ്പ് ഗേയിൻ അതിനാൽ ഒരു നോഡിൽ നിന്ന് ആരംഭിച്ച് ഒരേ നോഡിൽ അവസാനിക്കുന്ന പാതയിലൂടെ സഞ്ചരിച്ച് മറ്റൊരു നോഡിലൂടെ ഒന്നിലധികം തവണ കടന്നുപോകാതെ സിഗ്നൽ ഫ്ലോയുടെ ദിശ പിന്തുടരുക വഴി രൂപം കൊള്ളുന്ന ബ്രാഞ്ച് ഗെയിനുകളുടെ ഫലമാണ് ലൂപ്പ് ഗേയിൻ അതിനാൽ ലൂപ്പുകൾ കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ആദ്യ ലൂപ്പ് ഒന്നിലധികം തവണ നോഡുകൾ കടന്നുപോകാതെ ഒരേ നോഡിൽ നിന്ന് ആരംഭിച്ച് അതേ നോഡിലേക്ക് മടങ്ങിവരുന്ന ഒരു ലൂപ്പാണിത് അതിനാൽ ഈ ലൂപ്പിൻറെ ലൂപ്പ് ഗേയിൻ ആയിരിക്കും അതുപോലെ നമുക്ക് മറ്റ് ലൂപ്പുകളും കണ്ടെത്താം അത്തരമൊരു ലൂപ്പ് ഇതാണ് അതിനാൽ ഇത് ആയി മാറും മറ്റൊരു ലൂപ്പ് ഇതായിരിക്കാം അതിനാൽ ഇത് ആയി മാറും അതുപോലെ ഈ വിഭാഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന മറ്റൊരു ലൂപ്പ് ഉണ്ട് അതിനാൽ ഇത് ആയി മാറും അതിനാൽ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിങ്ങൾക്ക് നാല് സ്വതന്ത്ര ലൂപ്പുകളുണ്ട് ഇനി നമുക്ക് ഫോർവേഡ് പാത്ത് ഗേയിൻ നെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ എന്താണ് ഫോർവേഡ് പാത്ത് ഗേയിൻ ഇൻപുട്ട് നോഡിൽ നിന്ന് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻറെ ഔട്ട്പുട്ട് നോഡിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ കണ്ടെത്തിയ ഗേയിൻ ൻറെ ഫലമാണ് ഫോർവേഡ് പാത്ത് ഗേയിൻ അത് സിഗ്നൽ ഫ്ലോയുടെ ദിശയിലാണ് അതിനാൽ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് കണ്ടാൽ പ്രത്യേക സിഗ്നൽ ഫ്ലോ ഗ്രാഫിനായി 2 ഫോർവേഡ് പാത്ത് ഗേനുകളുണ്ട് ഏതൊക്കെയാണ് ആ ഫോർവേഡ് പാത്തുകൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് ബന്ധിപ്പിക്കുന്നതെന്താണെന്ന് കാണാൻ കഴിയുന്ന നേരിട്ടുള്ള പാതയാണ് അത്തരമൊരു പാത അതിനാൽ ആ പ്രത്യേക ഫോർവേഡ് പാതയുടെ ഗേയിൻ ആണ് ഇത് ഒരു നേരായ പാതയാണ് മറ്റ് പാത എന്തായിരിക്കും വഴി പോകുന്ന പാതയാണ് മറ്റ് പാത അതിനാൽ നിങ്ങൾക്ക് മറ്റൊരു ഫോർവേഡ് പാത്ത് ഗേയിൻ ലഭിക്കും അത് ആണ് ഈ ചിത്രത്തിൽ കാണുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രണ്ട് ഫോർവേഡ് പാത്ത് ഗേയിനുകൾ ലഭിക്കും നോൺ ടച്ചിംഗ് ലൂപ്പുകൾ കണ്ടെത്തുക എന്നതാണ് അടുത്തത് അതിനാൽ നോഡ് ഇല്ലാത്ത ലൂപ്പുകളാണ് നോൺ ടച്ചിംഗ് ലൂപ്പുകൾ അതിനാൽ മുമ്പത്തെ കേസ് കണ്ടാൽ 4 ലൂപ്പുകൾ നമ്മൾ കണ്ടെത്തി അതിൽ ആദ്യത്തെ ലൂപ്പ് മറ്റ് 3 ലൂപ്പുകളിലൂടെയും ബന്ധിപ്പിക്കാത്ത ലൂപ്പാണ് അതായത് ആദ്യത്തെ ലൂപ്പായ മറ്റ് 3 ലൂപ്പുകളിൽ തൊടുന്നില്ലെന്ന് നമുക്ക് എഴുതാം അതിനാൽ മറ്റ് 3 ലൂപ്പുകൾ ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് അതിനാൽ ഈ ലൂപ്പുകളുടെ സംയോജനം നോൺ ടച്ചിംഗ് ലൂപ്പുകളുടെ ഗേയിൻ ആയിരിക്കും നോൺ ടച്ചിംഗ് ലൂപ്പുകൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അതായത് ഒരേ സമയം രണ്ടോ മൂന്നോ നാലോ തവണ എടുത്ത സ്പർശിക്കാത്ത ലൂപ്പുകളിൽ നിന്ന് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ ഈ പ്രത്യേക ചിത്രത്തിൽ ൻറെയും ൻറെയും ഗുണനം നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ഒരേസമയം രണ്ടെണ്ണം എടുക്കുന്നതിനു തുല്യമാണ് അതുപോലെ മറ്റുള്ളവയ്ക്കും നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ കഴിയും അതിനാൽ ആദ്യം ഈ ലൂപ്പിനെയും ഈ ലൂപ്പിനെയും പരിഗണിച്ച് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ എടുക്കും തുടർന്ന് ഈ ലൂപ്പും മറ്റ് ലൂപ്പും എടുത്ത് ലൂപ്പ് ഗേയിൻ എടുക്കും മൂന്നാമത്തേത് ഈ ലൂപ്പും ഈ ലൂപ്പും അതിനാൽ നിങ്ങൾക്ക് മൂന്ന് സെറ്റ് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ഉണ്ടാകും അവിടെ നിങ്ങൾ ഒരു സമയം രണ്ടെണ്ണം എടുക്കും ഇപ്പോൾ ഈ ലൂപ്പും ഈ ലൂപ്പും എടുക്കുകയാണെങ്കിൽ ലൂപ്പ് ഗേയിനുകളുടെ ഗുണനം ഇതാണ് നോഡുകൾ പൊതുവായതിനാൽ ഇത് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ആയി കണക്കാക്കാൻ കഴിയില്ല അതിനാൽ നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിനിനായി നമ്മൾ പൊതുവായ നോഡുകളില്ലാത്ത നോഡുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാധാരണ നോഡുകളില്ലാത്ത മൂന്ന് നോൺ ടച്ചിംഗ് ലൂപ്പുകൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഒരു സമയം മൂന്ന് ലൂപ്പുകൾ എടുക്കാൻ കഴിയുന്ന നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ഇല്ലെന്നു ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിനാൽ രണ്ട് സെറ്റുകൾ മാത്രമേ ഉണ്ടാകൂ രണ്ട് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ എന്നതിനർത്ഥം ഒരു സമയം രണ്ട് ലൂപ്പുകൾ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുന്നതിന് പ്രധാനമായ മേസൺ നിയമത്തെക്കുറിച്ച് സംസാരിക്കാം സാധാരണയായി സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷനിലെത്താൻ ബ്ലോക്ക് ഡയഗ്രം കുറയ്ക്കുന്നതിന് അടിസ്ഥാന ബന്ധങ്ങളുടെ തുടർച്ചയായ പ്രയോഗം ആവശ്യമാണ് സിസ്റ്റത്തിൻറെ ഫൈനൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താൻ അടിസ്ഥാന ബന്ധങ്ങൾ പ്രയോഗിക്കേണ്ട ആവശ്യകത ബ്ലോക്ക് ഡയഗ്രാമിൻറെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇൻപുട്ടുമായി ഔട്ട്പുട്ടിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് കുറയ്ക്കുന്നതിന് റൂൾ ഉപയോഗപ്പെടുത്താം കൂടാതെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ ട്രാൻസ്ഫർ ഫംഗ്ഷനായി പരിവർത്തനം ചെയ്യുന്നതിന് ഇതിന് ഒരൊറ്റ ഫോർമുല മാത്രമേ ആവശ്യമുള്ളൂ ഈ ഫോർമുല ഉരുത്തിരിഞ്ഞത് എസ് ജെ മേസൺ സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ സമവാക്യങ്ങൾ ആയി ഗ്രാഫിൽ നിന്ന് എഴുതാൻ പറ്റുമെന്ന് കണ്ടെത്തിയപ്പോൾ ആണ് നിങ്ങൾക്ക് ഒന്നിലധികം നോൺ ടച്ചിംഗ് ലൂപ്പുകൾ ഉള്ളപ്പോൾ അതിൽ സങ്കീർണ്ണത ഉൾപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് നോൺ ടച്ചിംഗ് ലൂപ്പുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഫോർമുലയുടെ സങ്കീർണ്ണത വർദ്ധിക്കും മേസൺ നൽകിയ സമവാക്യം കാണുമ്പോൾ ഇത് നമുക്ക് മനസിലാക്കാൻ കഴിയും വളരെയധികം സിസ്റ്റങ്ങൾക്ക് സാധാരണയായി സ്പർശിക്കാത്ത ലൂപ്പുകൾ ഇല്ല അതിനാൽ ഈ രീതിയിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്തുന്നത് വളരെ എളുപ്പമായിരിക്കും സാധാരണയായി നിങ്ങൾക്ക് സ്പർശിക്കാത്ത ലൂപ്പുകളോ സ്പർശിക്കാത്ത കുറച്ച് ലൂപ്പുകളോ ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് മേസൻറെ സൂത്രവാക്യം ഉപയോഗിച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എളുപ്പത്തിൽ കണ്ടെത്താനാകും അതിനാൽ മേസൺ നിയമം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഔട്ട്പുട്ടും ഇൻപുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ ആണെങ്കിൽ സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ആയി പ്രതിനിധീകരിക്കാൻ കഴിയും അത് മേസൺ നിയമത്തിൻറെ സഹായത്തോടെ നൽകാം

സംഗ്രഹത്തെ സൂചിപ്പിക്കുന്നു k ഫോർവേഡ് പാതകളുടെ എണ്ണം kth ഫോർവേഡ് പാത്ത് ഗേയിൻ 1 ലൂപ്പ് ഗേയിൻ നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ഒരു സമയം രണ്ടെണ്ണം എടുത്തത് ഒരു സമയം മൂന്ന് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ഒരു സമയം നാല് നോൺ ടച്ചിംഗ് ലൂപ്പ് ഗേയിൻ ഒറ്റയായുള്ള ലൂപ്പ് ഗേയിനുകളുമായി ബന്ധപ്പെട്ട ലൂപ്പ് ഗേയിനുകളും ഒരേ സമയം രണ്ടോ മൂന്നോ നാലോ എടുക്കുമ്പോൾ സ്പർശിക്കാത്ത ലൂപ്പ് ഗേയിനുകളും നിങ്ങൾക്ക് നൽകും ഇപ്പോൾ ഫോർവേഡ് പാതയെ സ്പർശിക്കാത്ത ലെ ലൂപ്പ് ഗേയിൻ അതിനാൽ ഈ സമയത്ത് ചർച്ച അവസാനിപ്പിക്കും നാളെ നമ്മൾ തുടരും നന്ദി